നമസ്കാരം ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന കോഴ്സിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നെറ്റ്വർക്ക് തിയറിയെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങാം ഇതിൽ തന്നെ പ്രത്യേകമായി നമുക്ക് ലീനിയാരിറ്റി സവിശേഷതയെ കുറിച്ചും സ്രോതസ്സ് രൂപാന്തരത്തെ കുറിച്ചും ചർച്ച ചെയ്യാം അപ്പോൾ നമുക്ക് ലീനിയാരിറ്റി സവിശേഷതയിൽ നിന്ന് തുടങ്ങാം എന്താണ് ലീനിയാരിറ്റി ഒരു ഘടകത്തിന്റെ ലീനിയർ ആയിട്ടുള്ള കാരണഫലബന്ധം വിശദീകരിച്ചു തരുന്ന സവിശേഷതയാണ് ലീനിയാരിറ്റി കാരണം എന്നത് ഒരു ഇൻപുട്ട് ആകാം അതായത് ഒരു വോൾട്ടേജോ കറണ്ടോ ഇൻപുട്ട് ആയി നൽകിയാൽ അത് ഒരു ഘടകത്തെ ആഗികരണം ചെയ്യുന്നതുപോലെയോ അഥവാ ഊർജ്ജത്തെ ചിതറിച്ചു കളയുന്നത് പോലെയോ ആകാം വോൾട്ടേജിന്റെ യോ കറണ്ടിന്റെയോ സ്രോതസ്സ് സർക്യൂട്ടിന്റെ അകത്ത് ഒരു അപൂർവ്വത സൃഷ്ടിക്കുന്നു ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കുറച്ച് വോൾട്ടേജ്ജോ കറണ്ടോ ഔട്ട്പുട്ട് ആയി ആ പ്രത്യേക ഘടകത്തിൽ ലഭിക്കുന്നത് ഈ അവസ്ഥയിൽ കാരണഫലബന്ധം ലീനിയർ ആണ് ഈ സവിശേഷത നിരവധി സർക്യൂട്ട് ഘടകങ്ങളെ ബാധിക്കുമെങ്കിലും ഈ ലെക്ചറിൽ ഇതിന്റെ പ്രായോഗികത റസിസ്റ്റേഴ്സിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്നു ഇത് എന്തുകൊണ്ടെന്നാൽ ഒരു സവിശേഷത റസിസ്റ്റേഴ്സായി ബന്ധപ്പെടുത്തിയാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് നമുക്കു വേറെ ലീനിയർ ഘടകങ്ങളായ ഇൻഡക്ടറിനെയും കപ്പാസിറിനെയും പരിഗണിക്കാം ഹോമജനീറ്റിയുടെയും അടിറ്റിവിറ്റിയുടെയും സംയോജനമാണ് ലീനിയാരിറ്റി സവിശേഷത എന്താണ് ഹോമജനീറ്റി ഹോമജനീറ്റി എന്നാൽ ഒരു സവിശേഷതയാണ് ഇത് അനിവാര്യം ആകണമെങ്കിൽ ഒരു ഇൻപുട്ട് അഥവ ഉത്തേജനം ഒരു നെറ്റ്വർക്കിൽ സ്ഥിരാങ്കവുമായി ഗുണിക്കുകയാണെങ്കിൽ അതേ സ്ഥിരാങ്കവുമായി ഔട്ട്പുട്ടും ഗുണികേണ്ടതാണ് എന്നുവെച്ചാൽ നമ്മുടെ ഉത്തേജനത്തിനും പ്രതിതസ്പന്ദനത്തിനും ഹോമജനീറ്റി ഉണ്ടാകും നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജിനെ ഉയർത്തിയാൽ ഉദാഹരണത്തിന് K എന്ന സ്ഥിരാങ്കയായി സങ്കൽപ്പിക്കുക എന്നാൽ ഔട്ട്പുട്ട് അതായത് ഒരു സർക്യൂട്ട് ഘടകത്തിന്റെ കുറുകെയുള്ള വോൾട്ടേജ്ജോ അഥവാ അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ടോ ഈ മേൽപ്പറഞ്ഞ K എന്ന സ്ഥിരാങ്കം ഗുണിതമായിരിക്കും ഇനി നമുക്ക് ഇത് എങ്ങനെ നിർവചിക്കാം എന്ന് നോക്കാം ഉദാഹരണത്തിന് റെസിസ്റ്റർ ഉള്ള ഒരു ഓംസ്സ് ലോ സർക്യൂട്ട് പരിഗണിക്കുക ഓംസ്സ് ലോ അനുസരിച്ച് വോൾട്ടേജ് എങ്ങനെ എഴുതാം കറണ്ട് I യുടെയും റെസിസ്റ്റൻസ് R ന്റെയും ഗുണിതമായിരിക്കും വോൾടേജ് ഇനി ഇത് ഹോമജനീറ്റി സവിശേഷത പിന്തുടരുകയാണെങ്കിൽ അതിൽനിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ഥിരാങ്കം K ക്ക് തുല്യമായി കറണ്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വോൾട്ടേജും സ്ഥിരാങ്കം K ക്ക് തുല്യമായി വർദ്ധിക്കും അങ്ങനെ നമുക്ക് എഴുതാം K I R എന്നാൽ K V ആണെന്ന് അടിറ്റിവിറ്റി സവിശേഷത എന്നാൽ പല ഇൻപുട്ടുകളുടെ പ്രതിതസ്പന്ദനം ഓരോ ഇൻപുട്ട്ന്റെയും പ്രതിസ്പന്ദംനം പ്രത്യേകം പ്രത്യേകമായി കൊടുക്കുന്നതിന് സമമാണ് ഇനി സർക്യൂട്ടിൽ രണ്ട് വോൾട്ടേജ് സ്രോതസ്സുകൾ ഉണ്ടെന്ന് കരുതുക ഉദാഹരണത്തിന് V1 ഉം V2 ഉം ഇവ റെസിസ്റ്റർ R ന് കുറുകെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് കരുതുക V1 ഉം V2 ഉം പ്രത്യേകം പ്രത്യേകമായി റെസിസ്റ്റർ R ലേക് ഘടിപ്പിച്ചിരിക്കുന്നു ഒരു dc സ്രോതസ്സ് ഉം റെസിസ്റ്റർ R ഉം വേറൊരു dc സ്രോതസ്സ് ഉം പരിഗണിക്കുക ഇത് ഒരു സ്വിച്ച് വഴി ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതുക ഇപ്പോൾ സ്വിച്ച് V1 വോൾട്ടേജു ആയോ V2 വോൾട്ടേജു ആയോ ഘടിപ്പിച്ചിരിക്കുന്നു V1 ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ കറണ്ട് 𝑖1 അതിലൂടെ പ്രവഹിക്കും V1 അതിന്റെ കുറുകെ ആയിരിക്കും നമുക്ക് 𝑖1𝑅 കിട്ടും പോയിൻറ് ഒന്നിൽനിന്ന് പോയിൻറ് രണ്ടിലേക്ക് സ്വിച്ച് ഘടന മാറിയാൽ വോൾടേജ് V2 ഘടിപ്പിക്കപ്പെടും ഈ കറണ്ട് ഇപ്പോൾ 𝑖2 എന്നാണു അതിനാൽ V2 𝑖2𝑅 ന് തുല്യമാകും V1 ഉം V2 ഉം ഒരേ സമയത്ത് പ്രയോഗിച്ചാൽ കറണ്ട് മൊത്തം അതാത് വോൾട്ടേജിൽ നിന്ന് ലഭ്യമാകുന്ന അതാത് കറന്റ്ന്റെ തുക ആയിരിക്കും ഇത് അനുകരിക്കുന്നത് V1 𝑉2 𝑖1𝑅 𝑖2𝑅 നോട് സമം ഇരിക്കണം എന്നാണ് ഇത് അടിസ്ഥാനപരമായി അടിറ്റിവിറ്റി സവിശേഷത എന്നാണ് അറിയപ്പെടുന്നത് അതായത് അതാത് വോൾട്ടേജിന്റെയോകരണ്ട്ന്റെയോ പ്രതിതസ്പന്ദനം നമുക്ക് കൂട്ടിച്ചേർത്ത് കറണ്ട്ന്റെയോ വോൾട്ടേജിന്റെയോ അവസ്ഥയിലുള്ള ഒടുവിലത്തെ പ്രതിതസ്പന്ദനം കിട്ടിക്കാം ഇപ്പോൾ നമുക്ക് പറയാം ഒരു റെസിസ്റ്റർ ഒരു ലീനിയർഘടകമാണെന്ന് എന്തുകൊണ്ടെന്നാൽ ഒരു റെസിസ്റ്റർന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം ഹോമജനീറ്റി അടിറ്റിവിറ്റി എന്നീ ഘടകങ്ങളെ നിറവേറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പൊതുവായി പറയാം ഈ സർക്യൂട്ട് അടിറ്റിവും ഹോമജനീയസും ആണ് എങ്കിൽ അത് ഒരു ലീനിയർ സർക്യൂട്ടാണ് എന്ന് ഇനി എന്താണ് ലീനിയർ സർക്യൂട്ട് ലീനിയർ സർക്യൂട്ട് എന്നാൽ ലീനിയർ ഘടകങ്ങളും ലീനിയർ ആശ്രിത സ്രോതസ്സ് കളും സ്വതന്ത്ര സ്രോതസ്സ് കളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ലീനിയർ സർക്യൂട്ട് ഔട്ട്പുട്ട് അതിന്റെ ഇൻപുട്ട് ആയി ബന്ധപ്പെട്ടിരിക്കുന്നത് ലീനിയർ ആയിട്ടാണ് ഇനി ഒരു ലീനിയർ സർക്യൂട്ട്ന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധം നോൺ ലീനിയർ ആയേക്കാം അപ്പോൾ നമുക്ക് ആ അവസ്ഥയിൽ ഹോമജനീറ്റിയും അടിറ്റിവിറ്റിയും പ്രയോഗിക്കുവാൻ സാധിക്കുമോ ഇങ്ങനെ സങ്കൽപ്പിക്കുക അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണെന്നും ഔട്ട്പുട്ട് റസിസ്റ്ററിന് കുറുകെയുള്ള പവർ ആണെന്നും കരുതുക അപ്പോൾ അവർ എന്ത് ബന്ധമായിരിക്കും പിന്തുടരുക അവർ പിന്തുടരുക താഴെപ്പറയുന്നത് പോലെ ആയിരിക്കും ഇനി നമ്മൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന സമവാക്യം നോക്കിയാലറിയാം വോൾട്ടേജും പവറും തമ്മിലുള്ള ബന്ധം ലീനിയർ അല്ല എന്നുള്ളത് ഈ അവസ്ഥയിൽ നമുക്ക് ഹോമജനീറ്റി അടിറ്റിവിറ്റി എന്നീ സവിശേഷതകൾ റസിസ്റ്ററിന് കുറുകെയുള്ള പവർ കിട്ടുന്നതിനുവേണ്ടി പ്രയോഗിക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ തമ്മിൽ ലീനിയർ ബന്ധമല്ല ഉള്ളത് ഇതൊക്കെ കൊണ്ട് നമ്മൾ ഈ മോഡ്യൂളിൽ ചർച്ചചെയ്യുന്ന സിദ്ധാന്തങ്ങളെല്ലാം പവറിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതല്ല എന്തുകൊണ്ടെന്നാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ബന്ധം ലീനിയർ അല്ല കുറച്ചുകൂടി നന്നായി ലീനിയറിറ്റി സവിശേഷത മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം താഴെ കാണിച്ചിരിക്കുന്ന ലീനിയർ സർക്യൂട്ടിന്റെ ചിത്രം പരിഗണിക്കുക ഇവിടെ നമുക്ക് ഉള്ള ലീനിയർ സർക്യൂട്ട് ഒരു പെട്ടിക്കുള്ളിൽ ആണ് നമുക്ക് അറിയില്ല അതിന്റെ കോൺഫിഗറേഷൻഎന്താണ് എന്ന് നമുക്കറിയാം 𝑣𝑠 എന്ന ഇൻപുട്ട് ആണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് R എന്ന റസിസ്റ്ററിൽ കൂടി പ്രവഹിക്കുന്ന കറണ്ടിന്റെ മൂല്യമാണ് നമ്മൾ കണ്ടു പിടിക്കുന്നത് ഇവിടെ അനുമാനം എന്താണെന്ന് വെച്ചാൽ ലീനിയർ സർക്യൂട്ടിന്റെ അകത്ത് സ്വതന്ത്ര സ്രോതസ്സ് ഒന്നുമില്ല അപ്പോൾ 𝑣𝑠 മാത്രം ആണ് സ്രോതസ്സ് കൂടാതെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഔട്ട്പുട്ട് എന്താണെന്നുവെച്ചാൽ റെസിസ്റ്റർ R ലൂടെ പ്രവഹിക്കുന്ന കറണ്ട് R ലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ഔട്ട്പുട്ട് ആണെങ്കിൽ ഒരു അവസ്ഥയിൽ 𝑖 2 A എന്ന് കൊടുത്തിട്ട് 𝑣𝑠 10 V എന്നത് ഉപയോഗിക്കുക നിങ്ങൾ ഒരു പരീക്ഷണം ചെയ്യുകയാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് അതിന്റെ അകത്ത് എന്താണെന്ന് അറിയില്ല പക്ഷേ അതിന്റെ ഇൻപുട്ട് ടെർമിനലിന് കുറുകേ വോൾട്ടേജും കൂടാതെ ഒരു ലോഡ് R ഔട്ട്പുട്ട് ടെർമിനലിനു കുറുകെയും ഘടിപ്പിക്കുകയാണെങ്കിൽ എന്നിട്ട് കറണ്ട് 𝑖 അളക്കുകയും ചെയ്യുക ഇവിടെ ഒരു അമ്മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അതിലൂടെ കറണ്ടിന്റെ മൂല്യം അളക്കാം ഇപ്പോൾ നമ്മൾ 10 വോൾട്ട് ലീനിയർ സർക്യൂട്ടിന്റെ ഇൻപുട്ട്ലേക്ക് പ്രയോഗിച്ചു എന്നിട്ട് നമുക്ക് 2 ആംപിയർ കറണ്ട് കിട്ടി ഇനി നമ്മളോട് ചോദിക്കുകയാണ് 𝑣𝑠 വോൾടേജ് മൂല്യം ഒന്നാണെങ്കിൽ എന്തായിരിക്കും കറൻറ് 𝑖 യുടെ മൂല്യം നമുക്ക് ഒരു പരീക്ഷണവും ചെയ്യാതെതന്നെ ഉടൻതന്നെ പറയാൻ സാധിക്കും വോൾടേജ് മൂല്യം ഒന്നു ഇൻപുട്ട് ടെർമിനലിന് കുറുകെ കൊടുത്താൽ 0 2 ആംപിയർ ആയിരിക്കും റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എന്നത് ഇതുപോലെതന്നെ ഇനി നിങ്ങൾക്ക് ഒരു ആമ്പിയർ കറണ്ട് ആണ് റെസിസ്റ്ററിലൂടെ വേണ്ടതെങ്കിൽ എത്ര ആയിരിക്കും ഇൻപുട്ട്ലുള്ള വോൾടേജ്ന്റെ മൂല്യം ഇൻപുട്ട്ലുള്ള വോൾടേജ്ന്റെ മൂല്യം 5 വോൾട് ആയിരിക്കും ഇതൊരു ലീനിയർ സർക്യൂട്ട് ആയതുകൊണ്ട് ഇത് ഹോമജനീറ്റി സവിശേഷത അനുകരിക്കും അതായത് നമ്മൾ K എന്ന ഒരു ഘടകം മുഖാന്തരം ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്താൽ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ബന്ധം മാറരുത് അതായത് K എന്നാ ഒരു സ്ഥിരാങ്കം വെച്ച് ഇൻപുട്ടിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഔട്ടുംപുട്ടും ആ സ്ഥിരാങ്കത്തെ പോലെ തന്നെ തന്നെ കൂടുകയും കുറയുകയും ചെയ്യും ഇനി നമ്മൾ ചർച്ചചെയ്ത ലീനിയറിട്ടി അഡിറ്റീവിറ്റി ഹോമജനീറ്റി എന്നീ സവിശേഷതകൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം എടുക്കാം ഈ സർക്യൂട്ടിൽ വോൾട്ടേജ് സ്രോതസ്സ് 𝑣𝑠 12 V എന്ന് സങ്കൽപ്പിക്കുക നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് 12 വോൾട്ടും 24 വോൾട്ടും ആകുമ്പോൾ 4 ഓം ലൂടെ പ്രവഹിക്കുന്ന 𝐼0 കറൻറ്ന്റെ മൂല്യം ആണ് ഇത് ഹോമോജീനിറ്റിയുടെ കേസ് ആണ് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത് പോലെ ഈ തരത്തിലുള്ള സർക്യൂട്ടുകൾ മെഷ് വിശകലനം വഴിയായി പരിഹരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മെഷ് വിശകലനം ഉപയോഗിച്ച് കറൻറ്ന്റെ മൂല്യം നിർണയിക്കാൻ നോക്കാം ആദ്യത്തെ കേസിൽ 𝑣𝑠 12 volt ആകുമ്പോൾ KVL 2 വളയത്തിലേക്കും പ്രയോഗിച്ചാൽ അതായത് നമ്മൾ 𝑖1𝑖2 മെഷ് കറണ്ട് എടുത്താൽ ഈ പ്രത്യേകത മെഷിൽ നമുക്ക് എഴുതാം 12𝑖1 − 4𝑖2 𝑣𝑠 0 −4𝑖1 16𝑖2 − 3𝑣𝑥 − 𝑣𝑠 0 ഇനി 𝑣𝑥ന്റെ മൂല്യം എത്രയാണ് 𝑣𝑥 2𝑖1 ഇതിൻറെ സമവാക്യം നമുക്ക് ഇങ്ങനെ എഴുതാം −10𝑖1 16𝑖2 − 𝑣𝑠 0 ഈ രണ്ടു സമവാക്യങ്ങളും ഉപയോഗിച്ച് പരിഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 𝑣𝑠 12 V എന്ന കേസ് എടുത്താൽ A ഇനി നമുക്ക് ഈ മുഴുവൻ സർക്യൂട്ടും നിർണയിക്കേണ്ട കാര്യമില്ല Vs ന്റെ സമവാക്യം 24v എന്നാണ് ഇത് എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഈ സർക്യൂട്ട് ലീനിയർ ആണെന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വളരെ ലളിതമായി ഹോമോജീനിറ്റി സവിശേഷത ഉപയോഗിക്കും നമുക്ക് പറയാം 𝑣𝑠 24 V ആകുമ്പോൾ 𝐼0 A ആയിരിക്കും അതായത് സ്രോതസ്സിന്റെ മൂല്യം ഇരട്ടി ആകുമ്പോൾ ഹോമോജീനിറ്റി സവിശേഷത കാരണം 𝐼0 യും ഇരട്ടിയാകും ഇനി നമുക്ക് സൂപ്പർപൊസിഷൻ എന്ന വേറൊരു സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു സർക്യൂട്ടിൽ രണ്ടോ അതിൽ കൂടുതലോ സ്വതന്ത്ര സ്രോതസ്സ് ഉണ്ടെങ്കിൽ വോൾടേജ്ജോ കറണ്ടോ പോലുള്ള പ്രത്യേകമായ പരിവർത്തിതവസ്തുവിന്റെ മൂല്യം നിർണയിക്കുന്നതിന് ആയി നമ്മൾ കഴിഞ്ഞ ആഴ്ച് ചർച്ച ചെയ്ത നോഡൽ അല്ലെങ്കിൽ മെഷ് വിശകലനം ഉപയോഗിക്കാം വേറൊരു വഴിയിൽ ഓരോ സ്വതന്ത്ര സ്രോതസ്സ്ന്റെയും പങ്ക് വെവ്വേറെ നിർണയിച്ചിട്ട് ഇവ സമ്മിശ്രമാക്കുക ഇതിനെ സൂപ്പർപോസിഷൻ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് സൂപ്പർപൊസിഷൻ സിദ്ധാന്തത്തിൽ ചെയ്യുന്നത് സൂപ്പർപൊസിഷൻ സിദ്ധാന്തത്തിൽ ഒരു ഘടകത്തിലൂടെയുള്ള വോൾട്ടേജ് എന്താണെന്നുവെച്ചാൽ ഓരോ സ്വതന്ത്ര സ്രോതസ്സും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുക്കുമ്പോഴുണ്ടാകുന്ന വോൾട്ടെജുകളുടെ തുക ആയിരിക്കും അപ്പോൾ ഇതു നമുക്ക് സമ്പൂർണ്ണമായിട്ട് സൂപ്പർപൊസിഷൻ സിദ്ധാന്തത്തെ കുറിച്ചു തരും അതായത് നമുക്ക് അനേക വോൾട്ടജ് സ്രോതസ്സ്സോ അനേക കറണ്ട് സ്രോതസ്സ്സോ നെറ്റ്വർകിൽ ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്രോതസ്സ് ഒരു സമയത് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഘടകത്തിനും കുറുകെ ഉള്ള കറണ്ടും വോൾട്ടേജും കണ്ടുപിടിക്കുക എന്നിട്ട് നമുക്ക് ഓരോരോ പരിവർത്തിതവസ്തുവും കിട്ടുമ്പോൾ ഓരോന്നിന്റെയും കറണ്ടും വോൾട്ടേജും കണ്ടുപിടിച്ചിട്ടു അന്തിമ മൂല്യത്തിലേക്കൂട്ടിച്ചേർക്കുക അത് വോൾട്ടേജ്ജോ കറണ്ടോ ആകാം എന്തുകൊണ്ടെന്നാൽ ഈ സൂപ്പർപോസിഷൻ പാലിക്കുന്നത് ലിനേയറിറ്റി സവിശേഷത ആണ് അതിനാൽ ഹോമോജിനിറ്റിയും അഡിടിവിറ്റിയും ബാധകമായി വരാം സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കണമെങ്കിൽ ഈ സൂപ്പർപോസിഷൻ സിദ്ധാന്തം നമ്മളെ ഒന്നിൽ കൂടുതൽ സ്വതന്ത്ര സ്രോതസ്സുകൾ ഉള്ള ലീനിയർ സർക്യൂട്ട് വിശകലനം ചെയ്യുവാൻ സഹായിക്കും ഇത് എങ്ങനെ ആണെന്ന് വെച്ചാൽ ഓരോ സ്വതന്ത്ര സ്രോതസ്സിന്റെയും പങ്ക് വെവ്വേറെ കണക്കുകൂട്ടുക ഇനി സൂപ്പർപോസിഷൻ സിദ്ധാന്തം പ്രയോഗിക്കുന്നതിനു മുൻപ് ആയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് അതായത് സർക്യൂട്ട് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സമയത്ത് ഒരു സ്വതന്ത്ര സ്രോതസ്സ് മാത്രം വിചിന്തനം ചെയ്യുക ആ സമയത്ത് വേറെ ഉള്ള സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ആണെന്ന് വേണംകരുതാൻ ഇനി ടേൺ ഓഫ് അഥവാ പ്രവർത്തിക്കാതാക്കുക എന്ന് വെച്ചാൽ എന്താണ് വോൾടേജ് സ്രോതസ്സ്ന്റെ കേസിൽ അത് ഷോർട് സർക്യൂട്ടും കറണ്ട് സ്രോതസ്സ്ന്റെ കേസിൽ അത് ഓപ്പൺ സർക്യൂട്ടും ആയിരിക്കും അപ്പോൾ നമുക്കു അനേകം വോൾടേജ് സ്രോതസ്സുകളും അനേകം കറണ്ട് സ്രോതസ്സുകളും സർക്യൂട്ട്ട്ടിൽ ഉണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരു സ്രോതസ്സ് മാത്രം എടുക്കുക മറ്റുള്ള സ്രോതസ്സ് വോൾട്ടേജ് സ്രോതസ്സ് ആണെങ്കിൽ ഷോർട് സർക്യൂട്ടും കറണ്ട് സ്രോതസ്സ് ആണെങ്കിൽ അവ ഓപ്പൺ സർക്യൂട്ടും ആയിരിക്കും ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സ്ന്റെയോ കറണ്ട് സ്രോതസ്സ്ന്റെയോ കേസിൽ ഇവരെ നമ്മൾ നോഡൽ വിശകലനം വഴിയോ മെഷ് വിശകലനം വഴിയോ സർക്യൂട്ടിൽ തന്നെ വെച്ച് പരിഹരിക്കാൻ നോക്കണം അപ്പോൾ ആശ്രിത സ്രോതസ്സ് അതായത് വോൾട്ടേജ് സ്രോതസ്സ്സോ കറണ്ട് സ്രോതസ്സ്സോ കോട്ടം ഇല്ലാതെതന്നെ സർക്യൂട്ടിൽ നിലനിർത്തണം അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാം സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം പ്രയോഗിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു സ്വതന്ത്ര സ്രോതസ്സ്നെ ഒഴികെ ബാക്കിയെല്ലാ സ്വതന്ത്ര സ്രോതസ്സ്സ്നെയും ഓഫ് ചെയ്യണം എന്നിട്ട് ഏതെങ്കിലുമൊരു നെറ്റ്വർക്ക് വിശകലനം സാങ്കേതികപദ്ധതി വഴി ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം ഇത് നെറ്റ്വർക്കിലെ ആക്റ്റീവ് സ്രോതസ്സ് വഴി ഉണ്ടാകുന്ന വോൾട്ടേജ്ജ്ജോ കറണ്ടോ ആകാം ഇനി നടപടി മറ്റെല്ലാ സ്വതന്ത്ര സ്രോതസ്സിനും ആവർത്തിക്കുക ഈ രണ്ടു നടപടികളും സ്വതന്ത്ര സ്രോതസ്സ് വെവ്വേറെ സമയങ്ങളിൽ എടുത്തിട്ട് വേണം ചെയ്യുവാൻ ഇനി എല്ലാത്തിന്റെയും പങ്കു കിട്ടുവാനായി എല്ലാ സ്വതന്ത്ര സ്രോതസ്സ്ന്റെയും പങ്ക് കൂട്ടിചേർക്കുക അപ്പോൾ സൂപ്പർപൊസിഷൻ സിദ്ധാന്തം പ്രയോഗിക്കുവാൻ ആയും സർക്യൂട്ടിലെ പരിവർത്തിതവസ്തു കണ്ടുപിടിക്കുവാൻ ആയും ഈ നാല് നടപടികളാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുക ഒരു പ്രധാനപ്പെട്ട അഹിതം ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം പ്രയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരും ഇതിന്റെ കാരണം വളരെ ലളിതമാണ് അതായത് സിദ്ധാന്തം പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഓരോ സ്രോതസ്സും വെവ്വേറെ എടുക്കേണ്ടി വരുന്നു അതായത് ആ സർക്യൂട്ട് വിശകലനം ചെയ്യുവാനായി ആ നെറ്റ്വർക്കിൽ എത്ര സ്വതന്ത്ര സ്രോതസ്സ് ഉണ്ടോ അത്രയും ഗുണീഭവിച്ചു വേണം ചെയ്യാൻ 3 സ്വതന്ത്ര സ്രോതസ്സ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക എങ്കിൽ മൂന്ന് സർക്യൂട്ടുകൾ വിശകലനം ചെയ്തു അവസാനത്തെ ഔട്ട്പുട്ട് കിട്ടുവാനായി ഇതെല്ലാം കൂടി ഏകീകരിക്കേണ്ടി വരും അതായത് ഈ ഒരേ സർക്യൂട്ട് തന്നെ മൂന്നുതവണ ആയിട്ട് നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും ഇവ ലളിതം ആക്കിയതിനു ശേഷം ലളിതമാക്കുക എന്നുവച്ചാൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഒഴികെയുള്ളവയിൽ ഒന്നെങ്കിൽ കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട്ടെഡ് ആയിരിക്കണം അല്ലെങ്കിൽ വോൾട്ടേജ് സ്രോതസ്സ് ഷോർട് സർക്യൂട്ട്ടെഡ് ആയിരിക്കണം ഇതിനാൽ സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരും വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായ സർക്യൂട്ട് വളരെ ലളിതമായി പരിഹരിക്കുവാൻ നമ്മെ സഹായിക്കും ഇത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വോൾട്ടേജ് സ്രോതസ്സ് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയും കറണ്ട് സ്രോതസ്സ് ഒരു ഓപ്പൺ സർക്യൂട്ട്ആയും പകരം വയ്ക്കുന്നു അപ്പോൾ സൂപ്പർ പൊസിഷൻ സിദ്ധാന്തത്തിൽ നമ്മൾ ഓരോ വോൾട്ടേജ് സ്രോതസ്സും ഓരോ കറണ്ട് സ്രോതസ്സും വെവ്വേറെ എടുത്തു അനേകം സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നുണ്ടെങ്കിലും അന്തിമമായി സർക്യൂട്ടുകൾ വളരെ ലളിതമായതുകൊണ്ട് അനേകം സ്രോതസ്സുകൾ ഉള്ള സർക്യൂട്ടുകൾ ആയി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ലീനിയറിട്ടി ആണ് സൂപ്പർപൊസിഷൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം അതിനാൽ വിശകലനം ചെയ്യുവാനും അന്തിമ പരിണാമം ഒറ്റയ്ക്കായി ലഭിക്കുവാനും എളുപ്പമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വോൾട്ടേജും പവറും തമ്മിൽ ഉള്ള ബന്ധവും കൂടാതെ കറണ്ടും പവറും തമ്മിൽ ഉള്ള ബന്ധവും നോൺലീനിയർ ആണെന്ന് അതിനാൽ നമുക്ക് സൂപ്പർപൊസിഷൻ സിദ്ധാന്തം പവറിന്റെ മൂല്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല വലിച്ചെടുക്കുകപെടുന്ന പവർ വോൾട്ടേജ്നെയും കറണ്ട്നെയും ആശ്രയിച്ചിരിക്കും ഇനി പവർന്റെ മൂല്യം കണ്ടു പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ സൂപ്പർ പൊസിഷൻ സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ കറണ്ടിന്റെയും വോൾട്ടേജ്ന്റെയും മൂല്യം നിർണയിക്കാം എന്നിട്ട് അവസാനം കറണ്ടിന്റെയും വോൾട്ടേജ്ന്റെയും മൂല്യം നിർണയിച തിനുശേഷം പവറിന്റെ മൂല്യം നിർണയിക്കാം ഇതിനുവേണ്ടി വളരെ ലളിതമായ 𝐼𝑟 സമവാക്യം നമുക്ക് ഉപയോഗിക്കാം കൂടാതെ റെസിസ്റ്റ്റിനു കുറുകെയുള്ള വോൾട്ടേജ് നിർണയിക്കുന്നതിനായി സൂപ്പർപൊസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കാം ഇനി അവസാനത്തെ വോൾട്ടേജ് കിട്ടിക്കഴിയുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ള സമവാക്യം ഉപയോഗിച്ച് പവർന്റെ മൂല്യം നിർണയിക്കാം അതിനാൽ പവർ 𝑝 യുടെ മൂല്യം നിർണയിക്കുന്നതിനായി നേരിട്ട് സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കേണ്ട കാര്യമില്ല മറിച്ച് VI ആയിട്ടുള്ള ലീനിയർ ബന്ധം ഉപയോഗിക്കാം എന്നിട്ട് സർക്യൂട്ട് പരിഹരിക്കുവാൻ ആയി സൂപ്പർപൊസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കാം ഇനി നമുക്ക് സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം നന്നായി മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം എടുക്കാം ഇവിടെ നമുക്ക് 2 സ്രോതസ്സ് ഉണ്ട് ഈ സർക്യൂട്ടിൽനിങ്ങൾക്ക് കാണാം രണ്ട് സ്രോതസ്സ് അതായത് ഒരു വോൾട്ടേജ് സ്രോതസ്സും മറ്റേത് ഒരു കറണ്ട് സ്രോതസ്സും ഇനി 4 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇനി ഈ സർക്യൂട്ട് 2 ഭാഗങ്ങൾ ആയിട്ട് തിരിക്കാം അതായത് ഒരു സമയത്ത് ഒരു സ്രോതസ്സ് എടുക്കുന്ന രീതിയിൽ ഇതിൽ ഇവിടെ ആദ്യം നമ്മൾ വോൾട്ടേജ് സ്രോതസ്സ് എടുക്കുന്നു എന്നിട്ട് രണ്ടാമതായി നമ്മൾ കരണ്ട് സ്രോതസ്സ് എടുക്കുന്നു അങ്ങനെ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നു 4 ഓം റസിസ്റ്ററിൽ 𝑣1 സർക്യൂട്ടിൽ പ്രയോഗിക്കുമ്പോൾ കറണ്ട് സ്രോതസ്സ് സർക്യൂട്ടിൽ പ്രയോഗിക്കുക എങ്കിൽ റെസിസ്റ്റർ ന് കുറുകെ ഉള്ള വോൾട്ടേജ് 𝑣2 ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു ലീനിയർ സർക്യൂട്ടാണ് അന്തിമമായ വോൾട്ടേജ് 𝑣1 𝑣2 𝑣 നോട് തുല്യമായിരിക്കും അപ്പോൾ നമുക്ക് ഒരു സമയത്ത് ഒരു സ്രോതസ്സ് എടുക്കാം ഉദാഹരണത്തിന് അതിന് നമ്മൾ ആദ്യം വോൾട്ടേജ് സ്രോതസ്സ് എടുത്താൽ എന്ത് ചെയ്യും കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ആക്കുക ഇവിടെ നവീകരിച്ച സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എവിടെയാണ് 6 വോൾട് ഉള്ളതെന്ന് എന്നിട്ട് 6 ഓം റെസിസ്റ്ററിനു കുറുകെയുള്ള വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വളരെ ലളിതമായ സർക്യൂട്ടാണ് അതിനാൽ കിർച്ചഹോഫ് വോൾട്ടേജ് ലോ നമുക്ക് പ്രയോഗിക്കാം അതുവഴി വോൾട്ടെജിന്റെ മൂല്യം കണ്ടുപിടിക്കാം അതായത് ഈ കേസിൽ രണ്ട് വോൾട് ആയിട്ട് വരും ഇനി 𝑣2 കണ്ടു പിടിക്കുന്നതിനായി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ആക്കിയിട്ട് കറണ്ട് സ്രോതസ്സ് പ്രയോഗിക്കാം ആ കേസിൽ എന്ത് സംഭവിക്കും കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് 4 ഓം റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് കിട്ടും അത് വേറൊന്നുമല്ല രണ്ട് ആംപിയർസ് ആണ് ആ കേസിൽ വോൾട്ടേജ് 𝑣2 8 വോൾട്ട് ആയിട്ട് കിട്ടും അവസാനം സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തു പറയാം നമുക്ക് പറയാം 4 ഓം റെസിസ്റ്ററിനു കുറുകെ ഈ സർക്യൂട്ടിൽ പോകുന്ന വോൾട്ടേജ് 10 വോൾട്ട് ആണെന്ന് ഇനി കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നം അതായത് ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ഉള്ള സർക്യൂട്ട് എടുക്കാം ഇവിടെ നമുക്ക് സൂപ്പർപൊസിഷൻ സിദ്ധാന്തം പ്രയോഗിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം നാം ഒരു കറണ്ട് സ്രോതസ്സും ഒരു വോൾട്ടേജ് സ്രോതസ്സും നമ്മുടെ ഉദ്ദേശം ഫൈവ് ഓം റസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിന്റെ മൂല്യം നിർണ്ണയിക്കുക എന്നതാണ് കറണ്ട് ഭാഗിക്കുക 𝑖0 𝑖′0 𝑖′0′ 4 ആമ്പിയർ കറണ്ട് സ്രോതസ്സ്ഴ്സ്ന്റെ പങ്കാണ് 𝑖′0 20 വോൾട്ട് വോൾടേജ് സ്രോതസ്സ്ഴ്സ്ന്റെ പങ്കാണ് 𝑖′′0 ഇനി ആദ്യം 𝑖′0 ലഭിക്കുന്നതിനായി നമ്മളെന്തു ചെയ്യണം നമുക്ക് 20 വോൾട് വോൾട്ടേജ് സ്രോതസ്സിനെ ഷോർട്ട് സർക്യൂട്ട് ആക്കണം അപ്പോൾ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ആക്കിയ വോൾട്ടേജ് സ്രോതസ്സ് ലഭിക്കും ഇനി നമുക്ക് മാറ്റുവാൻ സാധിക്കില്ല നമുക്ക് ആശ്രിത സ്രോതസ്സ്നെ ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ ആക്കാൻ സാധിക്കുകയില്ല ഈ കേസിൽ ഇതാണ് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് അതിനാൽ സർക്യൂട്ട് നെ കേടുപറ്റാതെ ഇരുത്തും വോൾട്ടേജ് സ്രോതസ്സ്ന്റെ മൂല്യം 5𝑖0′ ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ ഈ നിമിഷം 𝑖0′ എന്നാ കറണ്ട് ആണ് നമ്മൾ വിശകലനം ചെയ്ത വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ഈ സർക്യൂട്ടിൽ പ്രവഹിക്കു കറണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യണം നമ്മൾ മെഷ് വിശകലനം ഉപയോഗിച്ച് 𝑖′0 യുടെ മൂല്യം കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് മൂന്ന് വളയങ്ങൾ കാണാം ഓരോ വളയത്തിലും കിർച്ചഹോഫ് ലോ Kirchhoffs law പ്രയോഗിക്കുക 𝑖1കറണ്ടിൽ 4 ആംപിയർ ആണ് ഉണ്ടാവുക എന്ന് ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വളയം രണ്ടിൽ കിർച്ചഹോഫ് വോൾട്ടേജ് ലോ പ്രയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് 6 50 Fലൂപ്പ് മൂന്നിൽ KVL ഉപയോഗിച്ച് മെഷ് സമവാക്യം എഴുതാം 1050 ഇത് ആശ്രിത സ്രോതസ്സ് ആയതിനാൽ ലൂപ്പ് സമവാക്യം മാത്രം കൊണ്ട് സർക്യൂട്ട് പരിഹരിക്കാൻ സാധിക്കുകയില്ല നമുക്ക് ഒരു നോഡ് എടുത്ത് KCL പ്രയോഗിച്ച് കറണ്ട് ബന്ധം കണ്ടുപിടിക്കണം 0 നോഡിൽ KCL പ്രയോഗിച്ചാൽ 4 മുകളിലത്തെ സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടും വെച്ചിട്ടുള്ളത് കുറച്ചും കൂടി ലഘു കരിച്ചാൽ നമുക്ക് കിട്ടും A കിട്ടുവാൻ വേണ്ടി അതായത് വോൾട്ടേജ് സ്രോതസ്സ്ന് പങ്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും 5 ഓം റെസിസ്റ്ററി ലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ആണ് അപ്പോൾ നമ്മുടെ ആശ്രിത സ്രോതസ്സ്ന്റെ മൂല്യം ആകും മെഷ് 4 ഇൽ മെഷ് സമവാക്യം എഴുതിയാൽ 5 0 ഇതുപോലെതന്നെ ലൂപ്പ് അഞ്ചിൽ മെഷ് സമവാക്യം എഴുതിയാൽ −𝑖4 10𝑖5 − 20 5𝑖0′′ 0 ഇനി എന്തുകൊണ്ടാണ് −𝑖4 1 ഓമിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് 𝑖5 ഇൽ അത് ഈ ദിശയിലേക്ക് ആണ് 𝑖4 എതിർ ദിശയിലേക്കും അതിനാൽ 𝑖4 ഇത് കാരണമാണ് ഒരു ഓപ്പൺ റസിസ്റ്റൻസ് 10𝑖5 എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇവിടെ 10 ഓം ഉള്ള മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട് 20 ഈ വോൾട്ടേജ് സ്രോതസ്സ്നും 5𝑖0′′ ഈ ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ്നും ഉണ്ട് ഇനി ഇവിടെ നമുക്ക് കാണാം 𝑖5−𝑖0′′ എന്തുകൊണ്ടാണ് വെച്ചാൽ −𝑖0′′ പ്രവഹിക്കുന്നത് 𝑖5 ന്റെ എതിർദിശയിലേക്ക് ആണ് അതിനാൽ നമുക്ക് 𝑖5 പകരം ഈ സമവാക്യങ്ങളിൽ −𝑖0′′ എന്ന് എഴുതാം അപ്പോൾ 𝑖5 ന്റെ മൂല്യം കൊടുത്തുകഴിഞ്ഞാൽ സമവാക്യം പരിഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 𝑖0′′ − 60 𝐴 17 അവസാനം ഈ സർക്യൂട്ട് പരിഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്യൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 𝑖0 𝑖0 ′ 𝑖0 ′′ നമ്മൾ 𝑖0′ 𝑖0′′ മൂല്യങ്ങൾ കണ്ടു പിടിച്ചു കഴിയുമ്പോൾ അത് തമ്മിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ 𝑖0 ന്റെ മൂല്യം −0 4076 A ആയി കിട്ടും ഇതുവഴി സർക്യൂട്ടിന്റെ ഘടകങ്ങൾ സൂപ്പർപൊസിഷൻ സിദ്ദാന്തം ഉപയോഗിച്ച് നിർണ്ണയിക്കുവാൻ സാധിക്കും അപ്പോൾ ഈ കേസിൽ 5 ഓം റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ആണ് അപ്പോൾ സൂപ്പർപൊസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് ആദ്യം നമ്മൾ വോൾട്ടേജ് സ്രോതസ്സ് നീക്കംചെയ്തു എന്നിട്ട് കറണ്ട് സ്രോതസ്സ് നീക്കംചെയ്തു എന്നിട്ട് അവസാനം 5 ഓമിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് സ്രോതസ്സ് വെവ്വേറെ കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടെന്നാൽ ഇത് ലീനിയർ സവിശേഷത ആണ് പിന്തുടരുന്നത് അപ്പോൾ ഇതോടെ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു അടുത്ത സെഷനിൽ നമുക്ക് വേറെ ചില സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യാം